നമ്മൾ ഇപ്പോൾ സർക്യൂട്ടുകളിലെ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ നോക്കും ഒരു വൈദ്യുത ഘടകത്തിന് കുറഞ്ഞത് രണ്ട് ടെർമിനലുകളുണ്ട് എന്താണ് ടെർമിനലുകൾ അടിസ്ഥാനപരമായി അവ വൈദ്യുതധാര ഒഴുകുന്ന പോയിന്റുകളാണ് അതിനാൽ രണ്ട് വയറുകളുള്ള ഒരു ബോക്സ് ആണ് സാധാരണയായി ഉള്ള ഘഡ്ഗങ്ങളെ പ്രതിനിധീകരിക്കുന്നത് അതിനാൽ ഇത് ടെർമിനൽ 1 ഉം ടെർമിനൽ 2 ഉം ആണ് കൂടാതെ ഈ ടെർമിനലിലൂടെ ഒരു കറന്റ് ഒഴുകും കൂടാതെ കൂടാതെ ടെർമിനലുകൾക് കുറുകെ നമ്മൾ വോൾട്ടേജുകൾ അളക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മുക്ക് ഒരു ജോഡി ടെർമിനലുകൾ മാത്രമേ ഉള്ളൂ നമ്മുക്ക് അളക്കാൻ കഴിയുന്ന ഒരൊറ്റ വോൾട്ടേജ് മാത്രമേയുള്ളൂ പ്രധാന കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളംVഉം Iഉം തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ അതായത് ടെർമിനലുകൾക്കിടയിലുള്ള വി ഐ ടെർമിനലുകളിലൂടെ കടന്നുപോകുന്നത് ഘടകത്തിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചു നമ്മൾ വിഷമിക്കേണ്ടതില്ല ഘടകം രൂപകൽപ്പന ചെയ്യുന്നതിന് ആന്തരിക വിശദാംശങ്ങൾ ആവശ്യമാണ് പക്ഷേ സർക്യൂട്ട് വിശകലനത്തിന് ആവശ്യമില്ല ഇപ്പോൾ തീർച്ചയായും നമുക്ക് രണ്ടിൽ കൂടുതൽ ടെർമിനലുകൾ ഉള്ള വൈദ്യുത ഘടകങ്ങൾ ഉണ്ടായിരിക്കാം മൂന്ന് ടെർമിനലുകളുള്ള ഇതുപോലുള്ള ഒരു ഘടകം നമുക്ക് ഉണ്ടായിരിക്കാം ഈ മൂന്ന് ഭാഗങ്ങളിലേക്കും നമുക്ക് വൈദ്യുത പ്രവാഹങ്ങൾ ഉണ്ടാകാം കൂടാതെ ഏതെങ്കിലും രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള വോൾട്ടേജുകളും നമുക്ക് അളക്കാൻ കഴിയും നമുക്ക് N ടെർമിനൽ ഉള്ള ഒരു ഘടകം ഉണ്ടെങ്കിൽ N മൈനസ് 1 സ്വതന്ത്ര വോൾട്ടേജുകളും വൈദ്യുതധാരകളും ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമാകും ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്താണ് ഇത് അടിസ്ഥാനപരമായി ഘടകങ്ങളുടെ പരസ്പരബന്ധമാണ് അതായത് ഘടകങ്ങളുടെ കുറഞ്ഞത് ഒരു ലൂപ്പെങ്കിലും ഉണ്ട് രണ്ട് ടെർമിനൽ ഘടകങ്ങളുടെ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് ഞാൻ ഇത് കാണിക്കും അതിനാൽ നിങ്ങൾക്ക് ചില ഘടകങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഘടകങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ഇപ്പോൾ വിഷമിക്കേണ്ടതില്ല അതിനാൽ നിങ്ങൾക്ക് ഇവിടെ നിരവധി ഘടകങ്ങൾ ബന്ധിപ്പിക്കാം ഒരു ലൂപ്പ് ഒരു നോഡിൽ നിന്ന് ആരംഭിക്കുന്ന ഒന്നാണ് കൂടാതെ നിങ്ങൾ ഘടകങ്ങൾ കണ്ടെത്തുകയും നിരവധി ഘടകങ്ങളിലൂടെ കടന്നുപോകുകയും ചെയ്യാം അതിനു ശേഷം അതേ നോഡിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു എന്താണ് നോഡ് ഇത് രണ്ടോ അതിലധികമോ ഘടകങ്ങളുടെ പരസ്പര ബന്ധത്തിന്റെ ഒരു പോയിന്റാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഈ നിർവചനം എന്താണ് നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു ലൂപ്പെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു അതിനാലാണ് സർക്യൂട്ടിൽ രസകരമായ ചില കാര്യങ്ങൾ നടത്താൻ സാധിക്കും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതായത് എനിക്ക് ഇതുപോലുള്ള ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ ഘടകം മാത്രം എടുക്കാം ഒരു ലൂപ്പും ഇല്ല ഇതിലെ കറന്റ് പൂജ്യമായിരിക്കും എന്ന് നിങ്ങൾ പെട്ടെന്ന് കാണും അതിനാൽ ഇത് രസകരമല്ല മാത്രമല്ല ഇത് ഒരു ഘടകമല്ല നിങ്ങൾക്ക് അവയിൽ പലതും ഒരുമിച്ച് ചെയിൻ ചെയ്യാൻ കഴിയും എന്നിട്ടും ഒരു ലൂപ്പും രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിലൂടെയുള്ള വൈദ്യുതധാര പൂജ്യമായിരിക്കും അടിസ്ഥാനപരമായി ഈ സർക്യൂട്ടുകൾ രസകരമല്ല സർക്യൂട്ടിൽ ചില രസകരമായ പെരുമാറ്റം ഉണ്ടാകാൻ നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു ലൂപ്പെങ്കിലും ആവശ്യമാണ് രണ്ടോ അതിലധികമോ ഘടകങ്ങളുടെ പരസ്പര ബന്ധത്തിന്റെ പോയിന്റാണ് നോഡ് ഘടകങ്ങൾ അടങ്ങിയ അടച്ച പാതയാണ് ലൂപ്പ് ഇപ്പോൾ ഇവയെല്ലാം പ്രധാനപ്പെട്ട ആശയങ്ങളാണ് പിന്നീട് സർക്യൂട്ടുകളുടെ വിശകലനത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നോഡ് പരസ്പര ബന്ധത്തിന്റെ പോയിന്റാണെന്നും അതിനാൽ അതിന്റെ അർത്ഥം അത് ഫിസിക്കലി ഒരു പോയിന്റായി വരച്ചതായിരിക്കണമെന്നില്ല മാത്രമല്ല ഇത് ഇതുപോലെ വരയ്ക്കാമെന്നും പറഞ്ഞു ഈ തരത്തിലുള്ള ഒരു സർക്യൂട്ട് ഞാൻ വരയ്ക്കട്ടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ വയറുകളും ഐഡിയൽ ആണ് ഐഡിയൽ എന്നാൽ തുല്യ പൊട്ടൻഷ്യൽ എന്തായാലും പ്രതിരോധം ഉണ്ടാകില്ല ഇവിടെ ഈ ഘടകത്തിന്റെ പരസ്പര ബന്ധത്തിന്റെ ഒരു പോയിന്റാണ് ഈ ഘടകവും ആ ഘടകവും ഒരു നോഡാണ് അതിനാൽ ഇത് മുഴുവൻ ഘടകങ്ങളുടെയും ഒരൊറ്റ നോഡാണ്